നമ്മൾ ഇതുവരെ എന്തൊക്കെയാണ് ചർച്ച ചെയ്തത് എന്ന് നോക്കാം വിൽസൺ സോമർഫെൽഡ് ക്വാണ്ടം കണ്ടീഷൻ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് റിസൾട്ട് ലഭിച്ചു മാത്രമല്ല കിട്ടിയേക്കാവുന്ന ക്വാണ്ടം മെക്കാനിക്കൽ റിസൾട്ട് ഊഹിച്ചെടുക്കാനും അതിലേക്കെത്തിച്ചേരാനും കാരണമായ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തു ക്വാണ്ടം മെക്കാനിക്കൽ റിസൾട്ട് എന്നത് കൊണ്ട് ഇവിടെ n വളരെ ചെറുതായുള്ള അവസ്ഥ അതായത് n വളരെ വലുതായുള്ള ക്ലാസിക്കൽ റിസൾട്ടിൽ നിന്നും n വളരെ ചെറുതായുള്ള ക്വാണ്ടം മെക്കാനിക്കൽ റിസൾട്ടിലേക്ക് എന്നർത്ഥം ഇപ്പോഴും ഉയർന്നു വരുന്ന ചോദ്യം ക്വാണ്ടം മെക്കാനിക്സ് പൂർണമാണോ എന്നാണ് ക്വാണ്ടം മെക്കാനിക്സ് മാത്രം ഉപയോഗിച്ച് എങ്ങനെ പല പ്രക്രിയകളുടെയും വിശദീകരണം നൽകാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ധാരണകളൊന്നുമില്ല ഈ ഒരു സന്ദർഭത്തിലാണ് ഹൈസെൻബെർഗ് അദ്ദേഹത്തിന്റെ റിസർച്ച് റിപ്പോർട്ട് മാജിക്കൽ പേപ്പർ എന്നറിയപ്പെടുന്ന ആദ്യ പേപ്പർ പ്രസിദ്ധീകരിക്കുന്നത് ഈ പേപ്പർ നിങ്ങൾക്ക് റെഫെറെൻസിനായി ഡിസ്കഷൻ ഫോറത്തിൽ അപ്ലോഡ് ചെയ്യാം അദ്ദേഹത്തിന്റെ പേപ്പറിൽ പറഞ്ഞിരിക്കുന്നത് ക്വാണ്ടം സിസ്റ്റത്തെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ക്ലാസിക്കൽ ഫിസിക്സ് പരാമർശിച്ചു കൊണ്ടാകരുത് അതായത് ക്ലാസിക്കൽ ഫിസിക്സ് എക്സ്ട്രാപൊലേറ്റ് ചെയ്ത് ക്വാണ്ടം ഫിസിക്സിലേക്ക് എത്താൻ ശ്രമിക്കരുത് ക്വാണ്ടം മെക്കാനിക്സിലൂടെ നേരിട്ട് തന്നെ വിശദീകരിക്കാൻ ശ്രമിക്കണമെന്നാണ് അപ്പോൾ ഇന്നത്തെ ഡിസ്കഷൻ ഹൈസെൻബെർഗിന്റെ ക്വാണ്ടം മെക്കാനിക്സുമായി ബന്ധപ്പെട്ട ഈ പേപ്പറിനെ കുറിച്ചാണ് അദ്ദേഹം എങ്ങനെയാണ് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിളിലൂടെ ക്വാണ്ടം തിയറിയിലേക്ക് എത്തിച്ചേർന്നതെന്നും ഇവിടെ ചർച്ച ചെയ്യാം ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കൂ ഒരു ആറ്റം റേഡിയേറ്റ് ചെയ്യുമ്പോൾ ആറ്റം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം എന്നാണ് അപ്പോൾ ആ സിസ്റ്റം റേഡിയേറ്റ് ചെയ്യുമ്പോൾ അത് സിമ്പിൾ ഹാർമോണിക് മോഷനിലുള്ള സിസ്റ്റം ആണെങ്കിൽ അതിന്റെ മോഷൻ എന്നായിരിക്കും ഇതിന്റെ ചലനം പൊതുവായി പ്രതിനിധാനം ചെയ്യാൻ 𝞃 വിലുള്ള സമ്മേഷൻ എടുക്കണം അതായത് ഇവിടെ C𝞃 എന്നത് കോയെഫിഷ്യന്റ് അല്ലെങ്കിൽ ആംപ്ലിട്യൂഡ് ആണ് 𝜔n എന്നത് ഫ്രീക്വൻസി ഇവിടെ ഫ്രീക്വൻസി 𝜔n എന്നത് nth ലെവെലിന് അനുബന്ധമായുള്ള ∂E∂J അഥവാ ആക്ഷൻ ആയിരിക്കും നമ്മൾ ഇവിടെ എനർജി റേഡിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ അല്ലെങ്കിൽ ക്വാണ്ടം പാർട്ടിക്കിളിന്റെ സഞ്ചാര പാത യഥാർത്ഥത്തിൽ കാണുന്നുണ്ടോയെന്നാണ് ഹൈസെൻബെർഗ് ഉന്നയിക്കുന്ന ചോദ്യം ഇതിനുള്ള ഉത്തരം ഇല്ല എന്ന് തന്നെയാണ് അതായത് ഇലക്ട്രോണിന്റെ സഞ്ചാര പാത അറിയില്ല എന്നർത്ഥം അപ്പോൾ നമുക്ക് ദൃശ്യമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായി പറയാൻ സാധിക്കില്ല അതുകൊണ്ടുതന്നെ ഹൈസെൻബെർഗിന്റെ ആദ്യത്തെ നിർദ്ദേശം അഥവാ പ്രൊപോസൽ ഇതായിരുന്നു പ്രൊപോസൽ 1 നമുക്ക് നിരീക്ഷിക്കാൻ സാധ്യമായ പരാമീറ്ററുകൾ മാത്രം വച്ച് ക്വാണ്ടം തിയറി രൂപീകരിക്കുക ഈ ഒരു ചിന്തയുടെ പിറകിൽ അഥവാ ഈ ഒരു നിർദ്ദേശം മുന്നോട്ടുവെക്കാൻ ഹൈസെൻബെർഗിനെ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ സ്വാധീനിച്ചത് ഐൻസ്റ്റൈൻ ഒരു സെമിനാറിൽ മുന്നോട്ടു വെച്ച ആശയമാണ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ അറ്റോമിക സിസ്റ്റത്തിൽ നിരീക്ഷിക്കുന്ന പരാമീറ്ററുകൾ ഉപയോഗിച്ചായിരിക്കണം ക്വാണ്ടം തിയറി രൂപപ്പെടുത്തേണ്ടത് എന്നും തദവസരത്തിൽ കഴിയുന്നതും ക്ലാസിക്കൽ തിയറിയോട് ചേർന്ന് നിന്നുകൊണ്ട് അതായത് അതിൽ മിനിമം വ്യത്യാസം മാത്രം വരുത്താൻ ശ്രമിക്കണമെന്നുമാണ് അപ്പോൾ ഞാനിവിടെ ക്വാണ്ടം തിയറിയും ക്ലാസിക്കൽ തിയറിയും മാറി മാറി പരാമർശിക്കേണ്ടതായി വരും ക്ലാസിക്കൽ തിയറി അനുസരിച്ച് ഇവിടെ C𝞃 എന്നത് ആംപ്ലിട്യൂഡ് ആണ് 𝜔n എന്നത് nth ലെവെലിന് അനുബന്ധമായുള്ള ഫ്രീക്വൻസി x അഥവാ ഡിസ്പ്ലേസ്മെന്റ് റിയൽ ക്വാണ്ടിറ്റി ആണ് അതിനർത്ഥം C𝞃 C𝞃 എന്നാണ് ഇതിനർത്ഥം എന്താണ് ഇത് മനസിലാക്കാനായി നമുക്ക് x യെ ഇങ്ങനെയെഴുതാം

ഇപ്പോൾ ഇത് ലിമിറ്റിന്റെ പോസിറ്റീവും നെഗറ്റീവും ഭാഗം ഉൾക്കൊള്ളുന്നുണ്ട് ഇവിടെ എന്ന ഭാഗം റിയൽ ആവണമെങ്കിൽ C𝞃 C 𝞃 ആവണം മാത്രമല്ല ഞാൻ ഇത് അങ്ങനെ എടുക്കുകയാണെങ്കിൽ അതായത് C𝞃 റിയൽ ആണെന്നെടുക്കയാണെങ്കിൽ അപ്പോൾ ഇവിടെ ആംപ്ലിട്യൂഡ് 2 C𝞃 ആണ് ഇത് ക്ലാസിക്കൽ റിസൾട്ട് ആണ് ഇതിനോട് സമാന്തരമായി ഹൈസെൻബെർഗ് മുന്നോട്ടുവച്ച ക്വാണ്ടം റിസൾട്ട് എന്താണെന്ന് നോക്കാം നമുക്ക് വീണ്ടും ക്ലാസിക്കൽ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതാം x റിയൽ ആകാനായി C𝞃 C 𝞃 ആവണം എന്നാൽ ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് x നമുക്ക് ദൃശ്യമല്ല അതായത് ക്വാണ്ടം സിസ്റ്റത്തിന്റെ സഞ്ചാര പാത നമ്മൾക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ടുതന്നെ ഹൈസെൻബെർഗ് മുന്നോട്ടുവച്ച ആശയം x യെ അനുബന്ധ ആംപ്ലിട്യൂഡ് C𝞃 ഫ്രീക്വൻസി 𝞃𝞈n ഇവ ഉപയോഗിച്ച് പ്രതിനിധാനം ചെയ്യുക എന്നതാണ് ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് ഇവിടെ C𝞃 എന്നത് Cnn 𝞃 അതായത് n ലെവലിൽ നിന്നും n 𝞃 ലെവെലിലേക്കുള്ള ട്രാൻസിഷന്റെ അനുബന്ധ ആംപ്ലിട്യൂഡ് 𝞈n എന്നത് n ലെവലിൽ നിന്നും n 𝞃 ലെവലിലേക്കുള്ള ട്രാൻസിഷന്റെ ഫ്രീക്വൻസി ഇത് En En τ ℏ ആയിരിക്കും അപ്പോൾ ഞാനിവിടെ x എന്നത് ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ച് എഴുതുകയല്ല മറിച്ച് C𝞃 𝞃𝞈n ഇവ ഉപയോഗിച്ച് x യെ പ്രതിനിധാനം ചെയ്യുകയാണ് ഇതെങ്ങനെയെന്ന് നോക്കാം അതായത് നമുക്ക് x യെ ആംപ്ലിട്യൂഡ് Cnn 𝞃 ഇതിന്റെ ഫ്രീക്വൻസി nn τ ഇവ ഉപയോഗിച്ച് എല്ലാ n വാല്യൂവിനും പ്രതിനിധാനം ചെയ്യണം Cnn 𝞃 nn τഇവയെന്തൊക്കെയാണെന്നു ഞാൻ വ്യക്തമാക്കിയിരുന്നല്ലോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചു സംഖ്യകളായിരിക്കും ലഭിക്കുന്നത് ഇവ ഒബ്സെർവബിൾസ് അഥവാ നിരീക്ഷിക്കാൻ സാധ്യമായവ ആണോ എന്നതാണ് അടുത്ത ചോദ്യം കാരണം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഈ തിയറി ഒബ്സെർവബിൾസ് ചേർത്താണ് രൂപീകരിച്ചിരിക്കുന്നതെന്ന് അപ്പോൾ ഇവ ഒബ്സെർവബിൾസ് ആണോ nn τ ഒബ്സെർവബിൾ ആണ് കാരണം ഇത് റേഡിയേഷന്റെ ഫ്രീക്വൻസിയാണ് 2Cnn τ എന്നത് ആംപ്ലിട്യൂഡ് ആണല്ലോ അതുകൊണ്ട് Cnn τ2എന്നത് ഇന്റെൻസിറ്റി യ്ക്ക് ആനുപാതികമാണ് അപ്പോൾ ഇവിടെ നിർദേശിച്ച രണ്ടു ക്വാണ്ടിറ്റിയും അതായത് nn τ യും Cnn τ യും സിസ്റ്റത്തിന്റെ ക്വാണ്ടം സ്വഭാവത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഒരു കാര്യം ഇവിടെ ഓർക്കാനുള്ളത് ഇത് കൈനമാറ്റിക് ലെവലിലുള്ള വ്യത്യാസമാണെന്നുള്ളതാണ് കൈനെറ്റിക്സ് എന്തായിരിക്കുമെന്ന് വ്യക്തമാക്കിയില്ലെങ്കിലും കൈനമാറ്റിക് ലെവലിൽ നമ്മൾ ഈ ക്വാണ്ടിറ്റികൾ ഉപയോഗിക്കുകയാണ് ഇതിനോടനുബന്ധിച്ചുള്ള വെലോസിറ്റി എന്താണ് വെലോസിറ്റി ആണ് ഇതിനെ inn τCnn τ ഫ്രീക്വൻസി nn τ ഇവ ഉപയോഗിച്ച് നമുക്ക് പ്രതിനിധാനം ചെയ്യാം ഇത് എങ്ങനെയാണ് ലഭിക്കുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിങ്ങൾക്കറിയാം ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ ഇതിനെയാണ് നമ്മൾ inn τCnn τ ഫ്രീക്വൻസി nn τ ഇവ ഉപയോഗിച്ച് പ്രതിനിധാനം ചെയ്യാമെന്ന് പറഞ്ഞത് അപ്പോൾ സിസ്റ്റത്തിന്റെ ചലനം കാണിക്കുന്ന ഏതു ഫ്യൂരിയർ കംപോനെന്റിനെയും n ലെവലിൽ നിന്നും n τ ലെവലിലേക്കുള്ള ട്രാൻസിഷനുമായി ബന്ധപ്പെട്ട നമ്പർ ആയി മാറ്റപ്പെടുന്ന രീതിയിൽ ക്ലാസിക്കൽ തിയറിയുമായി ഒന്നിനോടൊന്നു താദാത്മ്യം വരുത്തി ഇവിടെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയിരിക്കയാണ് ഇവിടെ x യെ Cnn τ ഫ്രീക്വൻസി nn τഇവയെ പ്രതിനിധാനം ചെയ്യുന്ന സഖ്യകളായി കാണിക്കുകയാണ് nn τ എന്നത് En En τℏ നു തുല്യമാണ് Cnn τ2എന്നത് nn τ ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷന്റെ ഇന്റെൻസിറ്റിയ്ക്ക് ആനുപാതികമാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ ഇത്രയുമാണ് ഹൈസെൻബെർഗ് നിർദേശിച്ച ചലനവുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ ഇതിനോടനുബന്ധിച്ചുള്ള മറ്റെല്ലാ മെക്കാനിക്കൽ വേരിയബിൾസും കണ്ടുപിടിക്കാവുന്നതേയുള്ളൂ ഉദാഹരണമായി നമ്മൾ പറഞ്ഞിരുന്നു വെലോസിറ്റി v എന്നത് inn τCnn τ nn τഇവ ഉപയോഗിച്ച് പ്രതിനിധീകരിക്കാമെന്ന് ഇതിനു കാരണം ആംപ്ലിട്യൂഡ് Cnn τയുടെ ടൈമിനനുസരിച്ചുള്ള മാറ്റം Cnn τeinn τt ആണ് ഇത് നമ്മൾ ക്ലാസിക്കൽ റിസൾട്ടിൽ നിന്നുമെടുത്തതാണ് ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്ത് v ലഭിച്ചു ഇതുപോലെ ആംഗുലർ മൊമെന്റം തുടങ്ങിയവയും കാണാവുന്നതാണ് അടുത്ത ചോദ്യം ഈ ക്വാണ്ടിറ്റികൾ എങ്ങനെയാണ് തമ്മിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ഗുണിക്കുകയോ ചെയ്യുന്നത് എന്നാണ് ചുരുക്കി പറഞ്ഞാൽ ഇവയുടെ ബീജഗണിത പ്രവർത്തനങ്ങൾ അഥവാ അൽജിബ്രൈക് ഓപ്പറേഷൻ എങ്ങനെ നടത്തും എന്നതായിരുന്നു പ്രശ്നം ഫ്രീക്വൻസികൾ തമ്മിൽ സംയോജിപ്പിക്കുന്ന രീതിയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ ഹൈസെൻബെർഗിന് മാർഗരേഖ ആയത് ആദ്യം നമുക്ക് രണ്ടു ക്വാണ്ടിറ്റികൾ തമ്മിൽ കൂട്ടുന്നത് എങ്ങനെയെന്ന് നോക്കാം x1 x2 ചെയ്യുകയാണെങ്കിൽ അതെ രീതിയിൽ x1 x2 യും ചെയ്യാമല്ലോ x1 x2 ചെയ്യാനായി ഒന്നാമത്തെ Cnn m നോട് രണ്ടാമത്തെ Cnn mകൂട്ടേണ്ടതായുണ്ട് അനുബന്ധ ഫ്രീക്വൻസി nn m തന്നെ ആയിരിക്കും നമ്മൾ നിരീക്ഷിച്ച ഫ്രീക്വൻസി തന്നെ ആയിരിക്കും ഇത് അങ്ങനെ ക്വാണ്ടിറ്റികൾ തമ്മിൽ കൂട്ടുവാനും അതുപോലെ തന്നെ കുറക്കുവാനും സാധിക്കും ഇതിനേക്കാളൊക്കെ പ്രധാനമായത് ഗുണനം അഥവാ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമുക്ക് രണ്ടു ക്വാണ്ടിറ്റികൾ X യും Y യും ഉണ്ടെന്നു വിചാരിക്കുക X യെ Cnn 𝞃 ωnn 𝞃 എന്നും Y യെ D nn 𝞃 ωnn 𝞃 എന്നും പ്രതിനിധാനം ചെയ്യാം അപ്പോൾ എങ്ങനെ ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമെന്ന് നോക്കാം ക്ലാസിക്കൽ തിയറി അനുസരിച്ച് അല്ലെങ്കിൽ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ക്ലാസിക്കൽ ലിമിറ്റ് ഇവിടെ പ്രയോഗിക്കുമ്പോൾ അതുപോലെ ഇതിനെ നമുക്ക് എന്നും എഴുതാവുന്നതാണ് അപ്പോൾ ക്ലാസിക്കൽ തിയറി അനുസരിച്ച് ഇതേ രീതിയിൽ തന്നെ ആണോ ക്വാണ്ടം മെക്കാനിക്സിലും പ്രതിനിധാനം ചെയ്യേണ്ടത് ക്ലാസിക്കൽ റിസൾട്ട് ഒന്ന് കൂടെ ഇവിടെ എഴുതാം

ക്വാണ്ടം മെക്കാനിക്സിൽ ഇങ്ങനെയല്ല ഉണ്ടാവുന്നത് കാരണം ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് നിരീക്ഷിക്കാൻ സാധ്യമായ ഫ്രീക്വൻസി മാത്രമേ അനുവദനീയമായുള്ളൂ ഏതെങ്കിലും കൃത്യമായ ചട്ടക്കൂടിനകത്തല്ലാത്ത ഫ്രീക്വൻസി നമുക്ക് ഒരിക്കലും നിരീക്ഷിക്കാൻ സാധ്യമല്ല ഉദാഹരണമായി നമുക്കിവിടെ 3 എനർജി ലെവലുകൾ n n 𝜶 n 𝜶 ꞵ എന്നിവയുണ്ടെന്ന് സങ്കൽപ്പിക്കുക 𝜶 ꞵ ഇവ അടുത്തടുത്ത എനർജി ലെവലുകളുടെ ക്വാണ്ടം നമ്പറിന്റെ വ്യത്യാസമാണ് n ൽ നിന്നും n 𝜶 യിലേക്കും n 𝜶 ൽ നിന്നും n 𝜶 ꞵ യിലേക്കും ട്രാൻസിഷൻ നടക്കുന്നെന്നു കരുതുക അങ്ങനെയെങ്കിൽ നേരത്തെ പറഞ്ഞ തിയറി അനുസരിച്ച് ഇതിന്റെ രണ്ടിന്റെയും കൂടി ഫ്രീക്വൻസി അതായത് n → n 𝜶 യുടെയും n 𝜶 → n 𝜶 ꞵ യുടെയും കൂടിയുള്ള ഫ്രീക്വൻസി നിരീക്ഷിക്കാൻ സാധിക്കണം എനിക്ക് കാണാൻ പറ്റുന്ന ഫ്രീക്വൻസി n → n 𝜶 ട്രാന്സിഷന്റെ ഫ്രീക്വൻസി nn α ഉം n 𝜶 → n 𝜶 ꞵ ട്രാന്സിഷന്റെ ഫ്രീക്വൻസി n α n α β യുമായിരിക്കും റൈറ്സ് ഫ്രീക്വൻസി കോമ്പിനേഷൻ റൂൾ അനുസരിച്ച് ഇങ്ങനെ എല്ലാ ഫ്രീക്വൻസിയും സംയോജിപ്പിക്കാൻ സാധിക്കില്ല മാത്രമല്ല എല്ലാ ഫ്രീക്വൻസിയും കാണാനും സാധിക്കില്ല ഈ കോമ്പിനേഷൻ സൈക്ലിക് റൂൾ അനുസരിച്ച് ഇങ്ങനെയെഴുതാം

ഇത് റാലെയ് ഫ്രീക്വൻസി സം റൂൾ അഥവാ കോമ്പിനേഷൻ റൂൾ Rayleigh frequency sum rule combination rule എന്നറിയപ്പെടുന്നു നമ്മൾ കാണുന്ന എല്ലാ ഫ്രീക്വൻസിയും ഈ റൂൾ അനുസരിച്ചുള്ളതാണ് നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ചിത്രീകരിക്കാം നമുക്ക് ഇവിടെ ദൃശ്യമാകുന്നത് ഒന്നാമത്തെ ലെവലിൽ നിന്നും രണ്ടാമത്തെ ലെവലിലേക്കുള്ളതും രണ്ടാമത്തെ ലെവലിൽ നിന്നും മൂന്നാമത്തെ ലെവലിലേക്കുള്ളതുമായ ഫ്രീക്വൻസിയുടെ കോമ്പിനേഷൻ മാത്രമാണ് അല്ലാതെ ഏത് ഫ്രീക്വൻസിയും ഇപ്രകാരം ചേർക്കാൻ സാധിക്കില്ല അപ്പോൾ ക്ലാസിക്കൽ റിസൾട്ട് ക്വാണ്ടം അവസ്ഥയിലേക്ക് മാറ്റുന്നത് വളരെ ശ്രദ്ധാപൂര്വമായിരിക്കണം ഇവിടെ ചില കോമ്പിനേഷനുകൾ മാത്രമേ തിരഞ്ഞെടുക്കാൻ പറ്റൂ ഇത് നമുക്ക് വിശദമായി നോക്കാം ഇവിടെ ഉയർന്നു വരുന്ന ഒരു ചോദ്യം ഫ്രീക്വൻസി ക്രമരഹിതമായി യാതൊരു നിയന്ത്രണവുമില്ലാതെ യോജിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥമെന്താണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എന്തുകൊണ്ട് ഇങ്ങനെയൊരു കോമ്പിനേഷൻ റൂൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ കുറെയധികം ലെവലുകൾ ഉദാഹരണമായി 5 ലെവലുകൾ ഉണ്ടെന്നു സങ്കൽപ്പിക്കുക ഇവിടെ ലെവൽ 1 → 2 ട്രാൻസിഷൻ ഫ്രീക്വൻസി 1 എന്നും 3 → 4 ട്രാൻസിഷൻ ഫ്രീക്വൻസി 2 എന്നുമെടുത്താൽ ഒരിക്കലും |1 2 | എന്ന കോമ്പിനേഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല അതിനർത്ഥം എല്ലാ ഫ്രീക്വൻസിയും ഏതുവിധത്തിലും യോജിപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് എന്നാൽ എനിക്ക് 1 → 2 ട്രാൻസിഷനും 2 →3 ട്രാൻസിഷനും യോജിപ്പിക്കാം അതുപോലെ 1 →4 ട്രാൻസിഷനും 4 →5 ട്രാൻസിഷനും യോജിപ്പിക്കാം അതായത് റൈറ്സ് കോമ്പിനേഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ചായിരിക്കണം ഇവയെ യോജിപ്പിക്കുന്നത് അതായത് മറ്റൊരുവിധത്തിൽ പറഞ്ഞാൽ മൊത്തം ട്രാൻസിഷനെ തുടർച്ചയായ രണ്ടു ട്രാൻസിഷനുകളായി വിഭജിക്കാൻ കഴിയുന്ന ഒരു ഫ്രീക്വൻസിയായും നിങ്ങൾക്കിതിനെ കാണാൻ കഴിയും ഞാൻ ആദ്യം പറഞ്ഞ കേസിൽ അതായത് ഇവിടെ ഇടതുവശത്തു കാണിച്ചതനുസരിച്ച് നിങ്ങൾക്ക് ഫ്രീക്വൻസിയെ ഡയഗ്രത്തിൽ പിങ്ക് നിറത്തിൽ കാണിച്ചിരിക്കുന്നു തുടർച്ചയായ രണ്ടു ഫ്രീക്വൻസിയായി വിഭജിക്കാൻ കഴിയില്ല കാരണം 1 1 → 2 ട്രാൻസിഷൻ ഫ്രീക്വൻസിയും 2 3 → 4 ട്രാൻസിഷൻ ഫ്രീക്വൻസിയുമാണ് അതുകൊണ്ടുതന്നെ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ അതായത് |1 2 | സാധ്യമല്ല ഇനി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ X Y നോക്കാം നേരത്തെ പറഞ്ഞതനുസരിച്ച് ഈ ഒരു രീതിയിൽ മാത്രമേ ഇവിടെ ഫ്രീക്വൻസി സംയോജിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു രീതിയിൽ മാത്രം ഫ്രീക്വൻസികൾ തമ്മിൽ ചേർക്കുന്നത് എന്തുകൊണ്ടും മനസിലാക്കാം കാരണം നമുക്കറിയാം ഇവിടെ n' എന്നത് ഏതെങ്കിലും ഇന്റർമീഡിയറ്റ് എനർജി സ്റ്റേറ്റ് ആണ് നേരത്തെ പറഞ്ഞ 5 എനർജി ലെവലുള്ള കേസ് എടുത്താൽ ഇങ്ങനെ ഇവിടെ കാണിച്ചതുപോലെ മുകളിലേക്കോ താഴേക്കോ തുടർച്ചയായ ലെവലുകൾ തമ്മിൽ ട്രാൻസിഷൻ നടക്കാം അപ്പോഴുള്ള ഫ്രീക്വൻസി കൾ തമ്മിൽ ഇങ്ങനെയാണ് സംയോജിപ്പിക്കേണ്ടത് അങ്ങനെ ഫ്രീക്വൻസികൾ തമ്മിൽ സംയോജിപ്പിക്കുമ്പോൾ En En എന്നതിന് അനുബന്ധമായി x യിൽ വരുന്ന കോയെഫിഷ്യന്റ് C എന്നത് ഇവിടെ Cnn ഉം En En α β എന്നതിന് അനുബന്ധമായി y യിൽ വരുന്ന കോയെഫിഷ്യന്റ് D എന്നത് ഇവിടെ Dnn α β ഉം ആയിരിക്കും അപ്പോൾ അപ്പോൾ ഇവിടെ എക്സ്പെരിമെന്റിലൂടെ കിട്ടിയ റിസൾട്ട് റൈറ്റ്സ് ഫ്രീക്വൻസി കോമ്പിനേഷൻ റൂൾ ഉപയോഗിച്ച് വളരെ ചിട്ടയായി സംയോജിപ്പിച്ചതുവഴി ഈ രീതി നന്നായി മനസിലാക്കിയിരിക്കയാണ് അപ്പോൾ ഇത് പൊതുവായി ഇങ്ങനെ എഴുതാം

മോഡേൺ ലാൻഗ്വേജിൽ ഇത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇതിനെ Xn n' Yn' n 𝞃 എന്നീ രണ്ടു മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന രൂപത്തിൽ എഴുതാം അതായത് ഇവയുടെ പ്രോഡക്റ്റ് എടുക്കുന്നു ആ കാലഘട്ടത്തിൽ മെട്രിക്സ് മെക്കാനിസം ഭൌതിക ശാസ്ത്രജ്ഞർ തീരെ ഉപയോഗിക്കാത്തത് കാരണം ഹൈസെൻബെർഗിന് ഈ ഒരു രീതി പരിചയമില്ലായിരുന്നു ഹൈസെൻബെർഗ് ആണ് ആദ്യമായി ഇത് ഇവിടെ ഉപയോഗപ്പെടുത്തിയത് അതാണ് ഇദ്ദേഹത്തിന്റെ മറ്റൊരു മഹത്വം ആവശ്യമായ കൈനമാറ്റിക് വ്യത്യാസങ്ങൾ വരുത്തിയതിനു ശേഷം നിരീക്ഷിക്കാൻ സാധ്യമായ ക്വാണ്ടിറ്റികൾ ഉദാഹരണമായി ആംപ്ലിട്യൂഡ് റേഡിയേഷന്റെ ഫ്രീക്വൻസി ഇവ ഉപയോഗിച്ച് ഡൈനാമിക്കൽ വേരിയബിളിനെ എങ്ങനെ പ്രതിനിധീകരിക്കും എന്ന് ഹൈസെൻബെർഗ് വ്യക്തമാക്കി ഇതനുസരിച്ച് x മെട്രിക്സ് രൂപത്തിൽ എഴുതാം ഒന്നാമത്തെ വരിയിൽ x11 x12 ei12t രണ്ടാമത്തെ വരിയിൽ x21 ei21t x22 x23 ei23t ഇവിടെ nn എന്നത് En En ℏ ആണ് n n' ഇവയുടെ താരതമ്യ വാല്യൂ അനുസരിച്ച് ഇത് നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ആകാം അപ്പോൾ ഇവിടെ എല്ലാ പരാമീറ്ററുകളും ഞാൻ മെട്രിക്സ് രൂപത്തിൽ എടുക്കുകയാണ് അതുകൊണ്ടുതന്നെ അതോടൊപ്പം മെട്രിക്സുകൾ തമ്മിൽ എങ്ങനെ ഗുണിക്കും എന്നുകൂടി അറിഞ്ഞിരിക്കണം ഇതിന്റെ അനന്തര ഫലം എന്തെന്ന് നോക്കാം ഞാൻ x y അതായത് മെട്രിക്സ് X നെ മെട്രിക്സ് Y കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതും മെട്രിക്സ് Y നെ മെട്രിക്സ് X കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതും ഒന്നായിരിക്കില്ല അതായത് അതായത് അപ്പോൾ മെട്രിക്സ് രൂപത്തിലേക്കുള്ള ഈ മാറ്റം ഒരു കാര്യം കൂടി വ്യക്തമാക്കി അതായത് സാധാരണയായി പ്രയോഗത്തിലുള്ള നമ്പറുകൾക്കായുള്ള കമ്മ്യൂറ്റേറ്റീവ് നിയമങ്ങൾ ക്വാണ്ടം മെക്കാനിക്സിൽ പ്രയോഗിക്കാൻ പറ്റില്ല എന്നർത്ഥം ഇതിനു മെട്രിക്സ് കമ്മ്യൂറ്റേറ്റീവ് നിയമങ്ങൾ തന്നെ വേണം ഇത് അതുവരെ നിലവിലുള്ള ക്ലാസിക്കൽ ഫിസിക്സിന്റെ ചട്ടക്കൂടിൽ നിന്നുമുള്ള ഒരു വേറിട്ട ചിന്തയായിരുന്നു ഇതനുസരിച്ച് xv ഒരിക്കലും vx നു തുല്യമാവണമെന്നില്ല ഇത് വലിയൊരു മാറ്റമാണ് നമുക്കറിയാം എനർജി ബഹിർഗമിക്കുന്ന റേറ്റ് അതായത് ഇന്റെൻസിറ്റി ആണെന്ന് ഇത് n → n ⍺ ട്രാൻസിഷനുള്ളതാണ് ഇവിടെ Cn 𝞈 ഇവ നേരിട്ട് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിലൂടെ നമുക്ക് പ്രശ്നപരിഹാരം കാണാൻ സാധിക്കും ഇത് എങ്ങനെ സാധ്യമാകും ക്വാണ്ടം കണ്ടീഷനുകൾ എന്തൊക്കെയാണ് ഇതിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് ഇവയൊക്കെ അടുത്ത രണ്ടു ക്ലാസ്സിലെ ചർച്ചാവിഷയങ്ങളാക്കാം